നമസ്കാരം ഇന്ന് ഈ ക്ലാസ്സിൽ സിംഗുലാരിറ്റി ഫംഗ്ഷനുകളെക്കുറിച്ചും ആ ഫംഗ്ഷനുകൾ എന്താണെന്നും സർക്യൂട്ട് വിശകലനത്തിൽ ആ ഫംഗ്ഷനുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്നും നമ്മൾ ചർച്ച ചെയ്യും അതിനാൽ ആരംഭിക്കാം എന്താണ് സിംഗുലാരിറ്റി ഫംഗ്ഷനുകൾ ഡിസ്ക്യാന്റീനുസ് അല്ലെങ്കിൽ ഡിസ്ക്യാന്റീനുസ് ഡെറിവേറ്റീവുകളോ ഉള്ള ഫംഗ്ഷനുകളാണ് സിംഗുലാരിറ്റി ഫംഗ്ഷനുകൾ സ്വതന്ത്ര വോൾട്ടേജ് ഉറവിടത്തിന്റെയോ കറന്റ് ഉറവിടത്തിന്റെയോ പെട്ടെന്നുള്ള പ്രയോഗത്തോടുള്ള ഫസ്റ്റ് ഓർഡർ സർക്യൂട്ടിന്റെ പ്രതികരണം മനസിലാക്കാൻ സിംഗുലാരിറ്റി ഫംഗ്ഷന്റെ അടിസ്ഥാന ധാരണ സഹായിക്കും അതിനാൽ നിങ്ങൾ ഈ സർക്യൂട്ട് കാണുകയാണെങ്കിൽ വോൾട്ടേജ് അല്ലെങ്കിൽ കറന്റ് ഉറവിടം പെട്ടെന്ന് പ്രയോഗിക്കുമ്പോൾ ഒരു സ്വിച്ച് വഴി വോൾട്ടേജ് ഉറവിടവുമായി സർക്യൂട്ട് ബന്ധിപ്പിക്കുകയാണെന്ന് കരുതുക തുടർന്ന് സ്വിച്ച് ഓൺ ചെയ്യുക എന്നതിനർത്ഥം അടിസ്ഥാനപരമായി സർക്യൂട്ടിലേക്ക് പെട്ടെന്ന് വോൾട്ടേജ് ഉറവിടം ചേർക്കുന്നു എന്നാണ് അതാണ് സർക്യൂട്ടിലേക്ക് പെട്ടെന്ന് കറന്റ് കടത്തി വിടുന്നത് ഒരു ഗണിതശാസ്ത്ര ഫംഗ്ഷന്റെ സഹായത്തോടെ പ്രതിനിധീകരിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കും അത് അതിനാൽ ഒരു ഗണിതശാസ്ത്ര പ്രവർത്തനത്തിന്റെ സഹായത്തോടെ ആ പ്രതിഭാസങ്ങളെ എങ്ങനെ പ്രതിനിധീകരിക്കും എന്ന് നോക്കാം മറ്റൊരു പ്രതിഭാസം നിങ്ങൾ ഏതെങ്കിലും വോൾട്ടേജ് പ്രയോഗിക്കുമ്പോഴെല്ലാം പെട്ടെന്ന് എന്തെങ്കിലും സർജ് ഉണ്ടാകാം അല്ലെങ്കിൽ വളരെ ചെറിയ സമയത്തേക്ക് സംഭവിക്കുന്ന ഏതെങ്കിലും സംഭവമുണ്ടാകാം നിങ്ങൾക്ക് സർക്യൂട്ടിൽ ഒരു വോൾട്ടേജ് പ്രത്യക്ഷപ്പെടും സർക്യൂട്ടിൽ സംഭവിക്കുന്ന മറ്റൊരു പ്രായോഗിക സംഭവവും അതാണ് ആ സംഭവത്തെ ഗണിതശാസ്ത്രപരമായ പ്രവർത്തനത്തിലേക്ക് എങ്ങനെ തുല്യമായി പ്രതിനിധീകരിക്കാമെന്ന് കാണും അതുവഴി അവ നമ്മുടെ സർക്യൂട്ട് വിശകലനത്തിൽ ഉപയോഗിക്കാൻ കഴിയും അതിനാൽ സർക്യൂട്ട് സിദ്ധാന്തത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിംഗുലാരിറ്റി ഫംഗ്ഷനുകൾ യൂണിറ്റ് ഇംപൾസ് യൂണിറ്റ് സ്റ്റെപ്പ് യൂണിറ്റ് റാമ്പ് എന്നിവപോലുള്ള ഫംഗ്ഷനുകളല്ലാതെ മറ്റൊന്നുമല്ല നിങ്ങൾ പെട്ടെന്ന് വോൾട്ടേജ് സോഴ്സ് സർക്യൂട്ടിൽ പ്രയോഗിക്കുമ്പോൾ അതിനർത്ഥം നിങ്ങൾ സർക്യൂട്ടിലേക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ചേർക്കുന്നു എന്നാണ് അതുപോലെ സർക്യൂട്ടിലേക്ക് പെട്ടെന്ന് ഒരു കുതിച്ചുചാട്ടം ഉണ്ടാകുമ്പോൾ ഇത് സർക്യൂട്ടിൽ യൂണിറ്റ് ഇംപൾസ് പ്രയോഗിച്ചതിനാലാണ് തുടർന്ന് സർക്യൂട്ടിലെ വോൾട്ടേജ് ക്രമേണ വർദ്ധിക്കുകയാണെങ്കിൽ യൂണിറ്റ് റാമ്പ് ഫംഗ്ഷന്റെ സഹായത്തോടെ പ്രതിനിധീകരിക്കുന്നു ഇപ്പോൾ അടിസ്ഥാനപരമായി ഈ യൂണിറ്റ് സ്റ്റെപ്പ് സ്വിച്ചിംഗ് സർക്യൂട്ടിൽ ഉണ്ടാകുന്ന സ്വിച്ചിംഗ് സിഗ്നലുകൾക്ക് ഒരു നല്ല നടപടിക്രമമാണ് കൂടാതെ ചില സർക്യൂട്ട് പ്രതിഭാസങ്ങളുടെ വൃത്തിയും വെടിപ്പുമുള്ള വിവരണത്തിന് ഇത് വളരെ സഹായകരമാണ് പ്രത്യേകിച്ച് ആർസി ആർഎൽ സർക്യൂട്ടിന്റെ സ്റ്റെപ്പ് പ്രതികരണം അതിനാൽ നമ്മുടെ ചർച്ചയുടെ പിന്നീടുള്ള സെഷനിൽ സർക്യൂട്ടിലേക്ക് സ്റ്റെപ്പ് പ്രതികരണം പ്രയോഗിക്കുമ്പോൾ സർക്യൂട്ട് പ്രതികരണത്തിന് എന്ത് സംഭവിക്കുമെന്ന് മനസിലാക്കാൻ ശ്രമിക്കും നമ്മൾ മനസിലാക്കാൻ ശ്രമിക്കുന്ന പ്രധാന പ്രവർത്തനമാണിത് അതിനുമുമ്പ് യൂണിറ്റ് സ്റ്റെപ്പ് യൂണിറ്റ് ഇംപൾസ് യൂണിറ്റ് റാമ്പ് ഫംഗ്ഷനുകൾ എന്നിങ്ങനെയുള്ള വിവിധ ഫംഗ്ഷനുകൾ എന്താണെന്ന് മനസിലാക്കാൻ ശ്രമിക്കാം അതിനാൽ ആദ്യം നമുക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ സമയത്തിന്റെ നെഗറ്റീവ് മൂല്യത്തിന് 0 ഉം സമയത്തിന്റെ പോസിറ്റീവ് മൂല്യത്തിന് 1 ഉം ആണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ അതിനാൽ സമയം പൂജ്യത്തേക്കാൾ കുറവായിരിക്കുമ്പോൾ ഫംഗ്ഷൻ മൂല്യം 0 ആണെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ പെട്ടെന്ന് അത് 0 സമയത്ത് 1 ആയി മാറുന്നു അതിനാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു ഗണിതശാസ്ത്രപരമായി എങ്ങനെ പ്രതിനിധീകരിക്കുന്നു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ മൂല്യം 0 ന് തുല്യമാണ് സമയം 0 ന് താഴെയാണെങ്കിൽ സമയം 0 നെക്കാൾ വലുതാണെങ്കിൽ മൂല്യം 1 ഉം ആണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ സമയം 0 ന് തുല്യമാകുമ്പോൾ നിർവചിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് കാരണം അത് സമയം 0 ന് തുല്യമാകുമ്പോൾ പെട്ടെന്ന് 0 മുതൽ 1 വരെ മാറുന്നു അതിനാലാണ് ഇതിനെ സിംഗുലാരിറ്റി ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത് സൈനും കോസൈനും പോലുള്ള മറ്റേതൊരു ഗണിതശാസ്ത്ര പ്രവർത്തനത്തെയും പോലെ ഇത് ഡിമെൻഷൻ ഇല്ലാത്തതാണ് ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും t സംഭവിക്കുന്നുവെങ്കിൽ എന്നത് 0 നെക്കാൾ വലുതാണെങ്കിൽ t 0 ന് തുല്യമാണ് എന്നതിനുപകരം യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ സമയത്ത് 1 ആകും അതിനാൽ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എങ്ങനെ കാണപ്പെടും അത്തരം സന്ദർഭങ്ങളിൽ വരെയുള്ള മൂല്യം 0 ആയിരിക്കും ന് ശേഷം നിങ്ങൾക്ക് മൂല്യം 1 ആയി ലഭിക്കും ൽ ഇത് നിർവചിക്കപ്പെട്ടിട്ടില്ല അതിനാലാണ് ഇത് ഒരു ഡോട്ട് ഇട്ട വരയായി കാണിക്കുന്നത് അതിനാൽ നിങ്ങൾ എങ്ങനെ ഗണിതശാസ്ത്രപരമായി പ്രതിനിധീകരിക്കും നിങ്ങൾക്ക് പറയാൻ കഴിയും t ആകുമ്പോൾ u0 ഉം t ആകുമ്പോൾ u 1 ഉം ആണ് അതിനാൽ ഈ സാഹചര്യത്തിൽ നമുക്ക് എന്ത് പറയാൻ കഴിയും യൂണിറ്റ് സ്റ്റെപ്പ് സെക്കൻഡ് വൈകുമെന്ന് പറയാം അതിനാൽ ഇത് സെക്കൻഡ് വൈകും കാരണം ഇത് 0 ൽ നിന്ന് ആരംഭിക്കുന്നില്ല അത് കുറച്ച് സമയം കഴിഞ്ഞ് ആരംഭിക്കുന്നു ഇപ്പോൾ നിങ്ങൾ t നെ ലേക്ക് മാറ്റുകയാണെങ്കിൽ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ u t 0 ആയി മാറും അപ്പോൾ t കൂടാതെ t ആകുമ്പോൾ ut 1 ആയിരിക്കും അതിനാൽ ഈ രീതിയിൽ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ t0 സെക്കൻഡിൽ മുന്നേറുന്നുവെന്ന് പറയാൻ കഴിയും ഇപ്പോൾ വോൾട്ടേജിലോ കറന്റിലോ പെട്ടെന്നുള്ള മാറ്റത്തെ പ്രതിനിധീകരിക്കാൻ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു അതിനാൽ ചില സ്വിച്ചിംഗ് ക്രമീകരണത്തിലൂടെ സർക്യൂട്ടിലേക്ക് വോൾട്ടേജോ കറന്റോ പ്രയോഗിക്കുമ്പോഴെല്ലാം അത് ഒന്നുമല്ല നിങ്ങൾ പെട്ടെന്ന് ഉറവിടം സർക്യൂട്ടിലേക്ക് പ്രയോഗിക്കുന്നു എന്നാണ് മാത്രമല്ല ഇത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ സഹായത്തോടെ പ്രതിനിധീകരിക്കുന്നു കാരണം വോൾട്ടേജിന്റെ മൂല്യം 1 ആയിരിക്കില്ല ഇത് കുറച്ച് മൂല്യമായിരിക്കും അതിനാൽ ഇത് ഒരു സ്റ്റെപ്പ് ഫംഗ്ഷനാണെന്ന് പറയും ഇപ്പോൾ ഇത് സർക്യൂട്ടിൽ കാണും സാധാരണയായി കണ്ട്രോൾ സംവിധാനത്തിലും ഡിജിറ്റൽ കമ്പ്യൂട്ടറുകളിലും കാണുന്നത് പോലെ അതേ രീതിയിൽ സ്റ്റെപ്പ് ഫംഗ്ഷന്റെ പ്രയോഗം നിങ്ങൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിലും കാണും ഇപ്പോൾ നിങ്ങൾ സർക്യൂട്ടിലേക്ക് സ്റ്റെപ്പ് വോൾട്ടേജ് പ്രയോഗിക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷന്റെ സഹായത്തോടെ ആ പ്രതിഭാസങ്ങളെ പ്രതിനിധീകരിക്കാൻ കഴിയും നിങ്ങൾ എങ്ങനെ പ്രതിനിധീകരിക്കും നിങ്ങൾക്ക് v0 എന്ന് പറയാൻ കഴിയും അപ്പോൾ t കൂടാതെ t ആകുമ്പോൾ v 1 ആയിരിക്കും അതിനാൽ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ കാര്യത്തിലും നിങ്ങൾക്ക് v ആയി പ്രതിനിധീകരിക്കാം അതിനാൽ ഇത് ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ മാത്രമാണ് t 0 ന് തുല്യമാണെങ്കിൽ v എന്നത് സ്റ്റെപ്പ് വോൾട്ടേജ് ആണ് ഇപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വോൾട്ടേജ് സോഴ്സ് ടെർമിനലുകൾ a b എന്നിവയ്ക്കിടയിൽ പ്രയോഗിക്കുന്നു സർക്യൂട്ടിലെ സ്വിച്ചിന്റെ സഹായത്തോടെ പ്രതിനിധീകരിക്കുന്ന നിബന്ധനയല്ലാതെ മറ്റൊന്നുമല്ല സർക്യൂട്ട് ഇതുപോലെ പ്രതിനിധീകരിക്കുന്നു ഇത് നിങ്ങൾക്ക് തുടക്കത്തിൽ ഈ സ്ഥാനത്ത് സ്ഥാപിക്കാൻ കഴിയുന്ന സ്വിച്ച് ആണ് അതിനാൽ സർക്യൂട്ട് ഇതുപോലെയാകും ഈ ടെർമിനലിൽ നിന്ന് ഈ ടെർമിനലിലേക്ക് സ്വിച്ച് പ്രയോഗിക്കുമ്പോൾ t 0 ന് തുല്യമാകുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത സർക്യൂട്ട് വ്യത്യസ്തമായിരിക്കും അതിനാൽ നിങ്ങൾ ഇത് പ്രയോഗിക്കുകയും ഇതാണ് കണക്ഷൻ എങ്കിൽ ഈ പോയിന്റിലേക്ക് കണക്റ്റുചെയ്യാൻ ഇത് നിർബന്ധിതമാവുകയും സർക്യൂട്ട് ഇതുപോലെയാകുകയും ചെയ്യും അതിനാൽ ഇതാണ് സ്വിച്ച് നിങ്ങൾ ഈ സ്വിച്ച് ഈ ഭാഗത്തേക്ക് ഇടുകയാണെങ്കിൽ ആ സ്വിച്ചിംഗ് ഇവന്റിന് ശേഷം സർക്യൂട്ട് ഇതായി മാറും അതിനാൽ ഇത് സർക്യൂട്ട് സ്വിച്ചിന്റെ സഹായത്തോടെ പ്രതിനിധീകരിക്കുന്ന സ്വിച്ചിംഗ് ഇവന്റിനൊപ്പം യൂണിറ്റ് സ്റ്റെപ്പ് പ്രതികരണത്തെ പ്രതിനിധീകരിക്കാം അതിനാൽ സമയം 0 ന് തുല്യമാകുമ്പോൾ ഈ സ്ഥാനത്ത് നിന്ന് ഈ സ്ഥാനത്തേക്ക് സ്വിച്ച് മാറുന്നുവെന്ന് നമുക്ക് പറയാം അതിനാൽ ഇത് ടി 0 പ്ലസ് അവസ്ഥയിൽ ടെർമിനൽ എബിക്ക് കുറുകെയുള്ള വോൾട്ടേജ് v0 ആകും അതിനാൽ ഇങ്ങനെയാണ് നിങ്ങൾ വോൾട്ടേജിനെ പ്രതിനിധീകരിക്കുന്നത് അതുപോലെ കറന്റ് ഉറവിടം ആണ് a b എന്നിവ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന കറന്റ് ഉറവിടമാണ് ഇപ്പോൾ സ്വിച്ച് വഴി പ്രതിനിധീകരിക്കണമെങ്കിൽ ഇതായിരിക്കും സർക്യൂട്ട് ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് തുടക്കത്തിൽ ഇതുപോലെ സർക്യൂട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ എ ബി എന്നിവയ്ക്കിടയിലുള്ള നിങ്ങളുടെ കറന്റ് 0 ആണ് സമയം t ന് നിങ്ങൾ സ്വിച്ച് തുറന്ന് ഇവിടെ നിന്ന് ഇവിടെ കണക്റ്റുചെയ്യുമ്പോൾ സർക്യൂട്ട് ഇതുപോലെയാകും അതിനാൽ സർക്യൂട്ടിൽ യുണിറ്റ് സ്റ്റോപ്പ് പ്രതികരണത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ വോൾട്ടേജിനും കറന്റ് ഉറവിടത്തിനും പ്രതിനിധീകരിക്കാമെന്നും ഇത് പറയുന്നു ഇപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് യൂണിറ്റ് ഇംപൾസ് ഫംഗ്ഷനാണ് നിങ്ങൾ സാധാരണയായി അതിനെ ആയി പ്രതിനിധീകരിക്കുന്നു അതിനാൽ നിങ്ങൾ എങ്ങനെ പ്രതിനിധീകരിക്കും എന്നത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അല്ലാതെ മറ്റൊന്നുമല്ലെന്നും അത് 0 ൽ താഴെയാകുമ്പോൾ മൂല്യം 0 ആയി പ്രതിനിധീകരിക്കുകയും 0 നെക്കാൾ വലുതാകുമ്പോൾ അത് വീണ്ടും 0 ആകുകയും ചെയ്യും കാരണം സമയം 0 നേക്കാൾ വലുതാകുമ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ മൂല്യം 1 ആണ് അതിനാൽ ആ സ്ഥിര മൂല്യത്തിന്റെ ഡെറിവേറ്റീവ് 0 ആയി മാറുന്നു അതിനാൽ t 0 ൽ താഴെയും 0 നെക്കാൾ വലുതും 0 ആയിരിക്കും t എന്നത് 0 ന് തുല്യമാകുമ്പോൾ അത് നിർവചിക്കപ്പെടില്ല അതിനാൽ ഈ പ്രോപ്പർട്ടി കാരണം ഇത് ഒരു സിംഗുലാരിറ്റി ഫംഗ്ഷനായി singularity function അതിനാൽ സാധാരണയായി യൂണിറ്റ് ഇംപൾസ് ഫംഗ്ഷനെ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ എന്നും വിളിക്കുന്നു അത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു അതിനാൽ സമയം 0 ന് തുല്യമാകുമ്പോൾ ഇതിന് 1 ഇംപൾസ് മാത്രമേ ഉള്ളൂവെന്ന് നിങ്ങൾ കാണും അല്ലെങ്കിൽ അതിന്റെ മൂല്യം 0 ആണ് അതിനാൽ t 0 ഒഴികെ എല്ലായിടത്തും യൂണിറ്റ് ഇംപൾസ് ഫംഗ്ഷൻ 0 ആണ് അവിടെ ഇത് നിർവചിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ ഇത് 0 ന് തുല്യമായ സമയത്ത് നിർവചിക്കാൻ കഴിയില്ല ഇപ്പോൾ ഒരു വൈദ്യുത സർക്യൂട്ടിൽ സ്വിച്ചിംഗ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇംപൾസീവ് ഉറവിടം കാരണം ഇംപൾസ് കറന്റും ഇംപൾസ് വോൾട്ടേജും സംഭവിക്കുന്നു അതിനാൽ ഒരു സർക്യൂട്ടിൽ ഒരു വോൾട്ടേജ് ഉറവിടം പ്രയോഗിക്കുമ്പോൾ സർക്യൂട്ടിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഇംപൾസ് ഉണ്ടാകും ഈ യൂണിറ്റ് ഇംപൾസ് ഫംഗ്ഷന്റെ സഹായത്തോടെ ഈ പ്രതിഭാസത്തെ പ്രതിനിധീകരിക്കാം അനുയോജ്യമായ വോൾട്ടേജ് ഉറവിടം അനുയോജ്യമായ കറന്റ് ഉറവിടം എന്നിവ പോലുള്ള അനുയോജ്യമായ ഉറവിടങ്ങളുടെ കാര്യത്തിൽ യൂണിറ്റ് ഇംപൾസ് പ്രവർത്തനം ഭൌതികമായി സാക്ഷാത്കരിക്കാനാവില്ലെങ്കിലും പ്രായോഗികമായി നമുക്ക് അനുയോജ്യമായ വോൾട്ടേജ് ഉറവിടം അല്ലെങ്കിൽ അനുയോജ്യമായ കറന്റ് ഉറവിടം എന്ന് വിളിക്കപ്പെടുന്ന ഒന്നുമില്ല അതുപോലെ അനുയോജ്യമായ റെസിസ്റ്റർ നിലവിലില്ല എന്നാൽ ഈ പ്രതിഭാസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതും നമ്മുടെ കണക്കുകൂട്ടലുകളിലും സർക്യൂട്ട് വിശകലനത്തിലും ധാരാളം ഉപയോഗിക്കും അത് പോലെ നമ്മുടെ സർക്യൂട്ട് വിശകലനത്തിനും യൂണിറ്റ് ഇംപൾസ് ഫംഗ്ഷൻ ഉപയോഗപ്പെടുത്താം ഇത് വളരെ പ്രധാനപ്പെട്ട ഗണിത ഉപകരണമാണ് ഇപ്പോൾ യൂണിറ്റ് ഇംപൾസ് സർക്യൂട്ടിലേക്ക് പ്രയോഗിച്ച ഷോക്ക് അല്ലെങ്കിൽ തത്ഫലമായുണ്ടാകുന്ന ഷോക്ക് എന്നും കണക്കാക്കാം ഇത് യൂണിറ്റ് ഏരിയയുടെ വളരെ ഹ്രസ്വകാല പൾസായി ദൃശ്യവൽക്കരിക്കാം അതിനാൽ ഗണിതശാസ്ത്രപരമായി നിങ്ങൾ എങ്ങനെ പ്രതിനിധീകരിക്കും ആ മൂല്യത്തെ 0 മൈനസ് മുതൽ 0 പ്ലസ് z വരെ 1 ന് തുല്യമായി പ്രതിനിധീകരിക്കും അതിനാൽ നിങ്ങൾ യൂണിറ്റ് ഇംപൾസ് ഇങ്ങനെയാണ് പ്രതിനിധീകരിക്കുന്നത് അല്ലെങ്കിൽ ഡയറക്ട് ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് പറയും അതിനാൽ t0 മൈനസ് സൂചിപ്പിക്കുന്നത് സമയം 0 ന് തൊട്ടുമുമ്പുള്ള സമയത്തെ സൂചിപ്പിക്കുന്നു കൂടാതെ t 0 പ്ലസ് എന്നത് സമയം 0 ന് ശേഷമുള്ള സമയമാണ് യൂണിറ്റ് ഏരിയയുടെ മൂല്യം ഇംപൾസ് ഫംഗ്ഷന്റെ കരുത്ത് എന്ന് വിളിക്കുന്നു അതിനാൽ ഇംപൾസ് പ്രവർത്തനത്തിന് ഐക്യമല്ലാതെ മറ്റൊരു ശക്തിയുണ്ടാകുമ്പോൾ ഇംപൾസ് വിസ്തീർണ്ണം അതിന്റെ ശക്തിക്ക് തുല്യമാണ് ഉദാഹരണത്തിന് ഇംപൾസ് ഫംഗ്ഷൻ 10 ആണെങ്കിൽ അതിനർത്ഥം 10 ന് തുല്യമായ ഒരു ഏരിയയുണ്ട് അതിനാൽ നിങ്ങൾ ഇത് എങ്ങനെ പ്രതിനിധീകരിക്കും നിങ്ങൾ സ്കെയിലിൽ പ്രതിനിധീകരിക്കും ഈ ചിത്രത്തിൽ ഇത് 10 ന്റെ മൂല്യമാണെന്ന് എളുപ്പത്തിൽ കാണാൻ കഴിയും ഈ മൂല്യം 5t2 ആയതിനാൽ മുമ്പ് ചർച്ച ചെയ്ത യൂണിറ്റ് സ്റ്റെപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് കുറച്ച് സമയത്തേക്ക് മുന്നേറുന്നു അതുപോലെ സമാനമായി ഇവിടെയും ഇത് 2 സെക്കൻഡ് മുന്നേറുന്നു അതിനാലാണ് ഇംപൾസ് ഫംഗ്ഷന്റെ യൂണിറ്റ് മൂല്യം 5t2 ആണ് മൂന്നാമത്തെ ഫംഗ്ഷൻ 3 സെക്കൻഡ് വൈകും അതിനാൽ അതുകൊണ്ടാണ് ഇത് മൈനസ് മൂല്യം നെഗറ്റീവ് ആണ് ഈ ഫംഗ്ഷന്റെ മൂല്യം 4 ആണ് ഇപ്പോൾ ഈ ഇംപൾസ് ഫംഗ്ഷൻ മറ്റ് പ്രവർത്തനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു മറ്റേതെങ്കിലും ഫംഗ്ഷനുമായി ഇംപൾസ് ഫംഗ്ഷൻ ക്ലബ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനാൽ f എന്ന ഫംഗ്ഷൻ ഒരു ഡെൽറ്റ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് പറയാം f𝜹 ന് a മുതൽ b വരെ ഇന്റഗ്രേഷൻ ചെയ്യാം അതിനാൽ ഈ പദപ്രയോഗം t ഒഴികെ 0 ആണ് അതിനാൽ t സമയത്ത് ഒഴികെ ഇന്റഗ്രേഷൻ 0 ആണെന്നാണ് ഇതിനർത്ഥം അതിനാൽ ഈ ഫംഗ്ഷൻ f ആയി ലളിതമാക്കാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് ഒടുവിൽ ലഭിക്കുന്നത് സമയത്ത് f ന്റെ മൂല്യമാണ് അതിനാൽ നിങ്ങൾ യൂണിറ്റ് ഇംപൾസ് ഫംഗ്ഷനെ മറ്റേതെങ്കിലും ഫംഗ്ഷനുമായി ബന്ധപ്പെടുത്തുമ്പോഴെല്ലാം ആ സംയോജിത ഫംഗ്ഷന്റെ മൂല്യം t സമയത്ത് ഫംഗ്ഷൻ മൂല്യമായി മാറും അതിനാൽ ഒരു ഫംഗ്ഷൻ ഇംപൾസ് ഫംഗ്ഷനുമായി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇംപൾസ് സംഭവിക്കുന്ന ഘട്ടത്തിൽ ഫംഗ്ഷന്റെ മൂല്യം നേടുന്നുവെന്നും ഇത് സാമ്പിൾ അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്നറിയപ്പെടുന്ന ഇംപൾസ് ഫംഗ്ഷന്റെ വളരെയധികം ഉപയോഗപ്രദമായ പ്രോപ്പർട്ടി ആണെന്നും ഇത് കാണിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ സാമ്പിൾ ചെയ്യാൻ താൽപ്പര്യപ്പെടുമ്പോൾ ഇൻപൾസ് ഫംഗ്ഷനെ ഒന്നിലധികം ഇടവേളകളിൽ ആ ഫംഗ്ഷനുമായി ബന്ധപ്പെടുത്തും തുടർന്ന് ആ ഫംഗ്ഷന്റെ സാമ്പിൾ വിവിധ സമയ ഇടവേളകളിൽ ലഭിക്കും അതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി ആണ് കൂടാതെ ഇത് സിഗ്നൽ പ്രോസസ്സിംഗിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു ഇനി നമുക്ക് യൂണിറ്റ് റാമ്പ് ഫംഗ്ഷനായ മൂന്നാമത്തെ ഫംഗ്ഷൻ മനസ്സിലാക്കാം യൂണിറ്റ് ഇംപൾസ് ഫംഗ്ഷന്റെ കാര്യത്തിൽ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനെ ഡിഫറെൻഷിയേറ്റ് ചെയ്തു ഇവിടെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഒരു യൂണിറ്റ് റാമ്പ് ഫംഗ്ഷൻ ലഭിക്കും ഇപ്പോൾ യൂണിറ്റ് റാമ്പ് ഫംഗ്ഷൻ കണ്ടാൽ r നിർവചിക്കാം കാരണം u പൂജ്യത്തേക്കാൾ കുറവുള്ള സമയത്തിന് 0 ഉം 0 ന് മുകളിലുള്ള സമയത്തിന് 1 ഉം ആണ് സമയം 0 നേക്കാൾ കുറവോ തുല്യമോ ആണെങ്കിൽ യൂണിറ്റ് റാമ്പ് ഫംഗ്ഷൻ പൂജ്യമായി നിർവചിക്കാൻ കഴിയും സമയം 0 നെക്കാൾ വലുതാകുമ്പോൾ t എന്ന മൂല്യത്തിന് തുല്യമാണ് അതിനാൽ ഈ t കാരണം t 1 ന് തുല്യമായ സമയത്ത് നിങ്ങൾ ഒരു റാംപ് കാണും റാമ്പിന്റെ മൂല്യം 1 ആയി ലഭിക്കും അതിനാൽ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നതുപോലെ ഈ ഫംഗ്ഷൻ ഈ ഗ്രാഫ് പ്രതിനിധീകരിക്കും അതിനാൽ ടി യുടെ നെഗറ്റീവ് മൂല്യങ്ങൾക്ക് യൂണിറ്റ് റാമ്പ് ഫംഗ്ഷൻ 0 ഉം ടി യുടെ പോസിറ്റീവ് മൂല്യത്തിന് ഒരു യൂണിറ്റ് സ്ലോപ്പ് ഉണ്ട് ഇപ്പോൾ പൊതുവേ റാമ്പ് ഒരു കോൺസ്റ്റന്റ് നിരക്കിൽ മാറുന്ന ഒരു ഫംഗ്ഷനാണ് യൂണിറ്റ് സ്റ്റെപ്പ് യൂണിറ്റ് ഇംപൾസ് എന്നിവയുടെ കാര്യത്തിലും കണ്ടതുപോലെ യൂണിറ്റ് റാമ്പ് പ്രവർത്തനം വൈകുകയോ മുന്നേറുകയോ ചെയ്യാം അതിനാൽ ഇവിടെയും നിങ്ങൾക്ക് മുന്പോട്ടാക്കാനോ കാലതാമസം വരുത്താനോ കഴിയും സമയം കാലതാമസം വരുത്തുമ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ നിങ്ങൾക്ക് റാംപ് ഫംഗ്ഷൻ t ലഭിക്കും നിങ്ങൾ മുന്നോട്ട് മാറ്റുമ്പോൾ നിങ്ങളുടെ റാമ്പ് മുതൽ ആരംഭിക്കുകയും റാമ്പ് ഫംഗ്ഷൻ t ആകുകയും ചെയ്യും അതിനാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്ന പ്രധാന കാര്യം ആ സമയത്ത് t മൈനസ് 1 ന് തുല്യമാണ് നിങ്ങൾക്ക് യൂണിറ്റ് റാമ്പിന്റെ മൂല്യം ലഭിക്കും ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ സംഗ്രഹിക്കാൻ ശ്രമിക്കാം കാലതാമസം നേരിട്ട റാമ്പിനായി സമയം t മൂല്യം 0 ആയിരിക്കും കാലതാമസമുള്ള റാമ്പ് ഫംഗ്ഷൻ നിർവചിക്കുമ്പോൾ t സമയത്തിന് t ആയിരിക്കും അഡ്വാൻസ് യൂണിറ്റ് റാമ്പ് ഫംഗ്ഷൻ rt നിർവചിക്കുമ്പോൾ t ആയിരിക്കുമ്പോൾ മൂല്യം 0 എന്ന് എഴുതാം t സമയത്തിന് t ആയിരിക്കും അതിനാൽ യൂണിറ്റ് ഇംപൾസ് സംഗ്രഹിക്കാം യൂണിറ്റ് ഇംപൾസ് എന്നത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അല്ലാതെ മറ്റൊന്നുമല്ലെന്നും യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യൂണിറ്റ് റാമ്പ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണെന്നും എഴുതാം അതുപോലെ യൂണിറ്റ് റാമ്പ് എന്നത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ സംയോജനവും യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യൂണിറ്റ് ഇംപൾസ് ഫംഗ്ഷന്റെ സംയോജനവുമാണ് അതിനാൽ ഈ 3 ഫംഗ്ഷനുകളും ചർച്ച ചെയ്ത ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ സംയോജനമാണെന്ന് ലളിതമായി പറയാൻ കഴിയും അതിനാൽ ഇപ്പോൾ ഒരു സർക്യൂട്ടിന്റെ സ്റ്റെപ്പ് പ്രതികരണം ആരംഭിക്കാം കാരണം സിംഗുലാരിറ്റി ഫംഗ്ഷനുകൾ എന്ന് വിളിക്കുന്ന അടിസ്ഥാന ഫംഗ്ഷനുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ വളരെ പ്രധാനമാണ് കാരണം ഒരു ആർസി സർക്യൂട്ടിന്റെ സ്റ്റെപ്പ് പ്രതികരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അർത്ഥമാക്കുന്നത് വോൾട്ടേജ് പ്രയോഗിക്കുമ്പോൾ സർക്യൂട്ടിലേക്കുള്ള സോഴ്സ് സ്റ്റെപ്പ് ഇൻപുട്ടിലേക്കുള്ള സ്റ്റെപ്പ് ഇൻപുട്ടിനെക്കുറിച്ചാണ് അതിനാൽ ഡിസി വോൾട്ടേജിന്റെയോ കറന്റ് ഉറവിടത്തിന്റെയോ പെട്ടെന്നുള്ള പ്രയോഗം മൂലം സർക്യൂട്ടിന്റെ പ്രതികരണമാണ് സ്റ്റെപ്പ് പ്രതികരണം ഇപ്പോൾ നമുക്ക് ഇവിടെ ഇടതുവശത്ത് സർക്യൂട്ട് കണ്ടാൽ t0 സമയത്ത് സർക്യൂട്ടിൽ സ്വിച്ചുചെയ്യും നിങ്ങൾ സർക്യൂട്ടിൽ സ്വിച്ചുചെയ്യുമ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ സർക്യൂട്ട് ആയിരിക്കും അതിനാൽ എന്നത് യൂണിറ്റ് സ്റ്റെപ്പല്ലാതെ മറ്റൊന്നുമല്ലെന്ന് പറയാൻ കഴിയും കാരണം ഈ യൂണിറ്റ് സ്റ്റെപ്പ് സ്വിച്ച് ആയി നിർവചിക്കുന്നു നിങ്ങൾ സ്ഥിരമായ dc വോൾട്ടേജ് ഉറവിടം പ്രയോഗിക്കുന്നതിനാൽ ഇവിടെ സ്ഥിരമാണ് നിങ്ങൾ നിർണ്ണയിക്കേണ്ട ഒരു സർക്യൂട്ട് പ്രതികരണമായി കപ്പാസിറ്റർ വോൾട്ടേജ് തിരഞ്ഞെടുക്കുന്നു അതിനാൽ നിർണ്ണയത്തിനായി കപ്പാസിറ്ററിന് തുടക്കത്തിൽ വോൾട്ടേജ് ചാർജ്ജ് ചെയ്യാമെന്ന് കരുതുക അതിനാൽ വോൾട്ടേജ് ഉപയോഗിച്ച് ചാർജ്ജ് ചെയ്യപ്പെട്ടുവെന്ന് പറയുമ്പോൾ ആ സമയത്ത് t 0 അല്ലെങ്കിൽ t 0 വോൾട്ടേജ് അതേപടി തുടരും കാരണം കപ്പാസിറ്ററിന് തൽക്ഷണം വോൾട്ടേജ് മാറ്റാൻ കഴിയില്ല അതിനാൽ t 0 ൽ സ്വിച്ചിംഗ് സംഭവിക്കുന്നതിന് തൊട്ടുമുമ്പ് കപ്പാസിറ്ററിന് കുറുകെയുള്ള വോൾട്ടേജും സ്വിച്ചിംഗ് നടന്ന ഉടൻ തന്നെ 0 പ്ലസ് വോൾട്ടേജുമാണ് ഇപ്പോൾ ഈ സർക്യൂട്ടിൽ നിങ്ങൾ കെസിഎൽ പ്രയോഗിച്ചാൽ എന്ത് ലഭിക്കും നമുക്ക് ഇത് ഒരു നോഡ് എ എടുക്കാം ഇത് കറന്റ് ആണ് ഈ കറന്റ് എന്ന് പറയുന്നു അതിനാൽ ലളിതമായി പറയാൻ കഴിയും 0 ന്റെ മൂല്യം എന്താണ് എന്നത് C അല്ലാതെ മറ്റൊന്നുമല്ല കാരണം ഇത് നോഡിന് കുറുകെയുള്ള വോൾട്ടേജാണ് നെ എന്ന് പ്രതിനിധീകരിക്കാം സ്ലൈഡുകളിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഇത് മാറ്റിയെഴുതാം അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്ന മൂല്യമുണ്ട് ഇത് എന്ന് ലളിതമാക്കാം പ്രാരംഭ അവസ്ഥ ഉപയോഗിച്ച് ഇരുവശത്തും ഇന്റഗ്രേറ്റ് ചെയ്യുക പ്രാരംഭ അവസ്ഥ എന്തായിരുന്നു കപ്പാസിറ്ററിന് കുറുകെയുള്ള വോൾട്ടേജ് 0 പ്ലസ് സമയത്ത് 0 ആയിരുന്നു അത് പ്രയോഗിക്കുന്നു ആ പ്രാരംഭ വ്യവസ്ഥ ഉപയോഗിക്കുകയും ഇരുവശത്തും ഇന്റഗ്രേറ്റ് നടത്തുകയും ചെയ്യുന്നു സ്ലൈഡിൽ നൽകിയിരിക്കുന്നതുപോലെ എക്സ്പ്രഷൻ ലഭിക്കുന്നു ഇരുവശത്തും എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കും

അതിനാൽ ആർസി സർക്യൂട്ടിന്റെ സോഴ്സ് ഫ്രീ പ്രതികരണത്തെക്കുറിച്ച് ചർച്ചചെയ്യുമ്പോൾ ഈ τ നെ ടൈം കോൺസ്റ്റന്റ് എന്ന് വിശേഷിപ്പിച്ചു അത് RC അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ സ്ലൈഡുകളിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഇത് ലളിതമാക്കും ഇപ്പോൾ ഈ അവസ്ഥ 0 ന് മുകളിലുള്ള സമയത്തിന് മാത്രമേ സാധുതയുള്ളൂ സമയം 0 ൽ കുറവാണെങ്കിൽ മൂല്യം കപ്പാസിറ്ററിന് കുറുകെയുള്ള പ്രാരംഭ വോൾട്ടേജിന് തുല്യമാണ് v0 അതിനാൽ നമുക്ക് എന്ത് പറയാൻ കഴിയും ആർസി സർക്യൂട്ടിലേക്ക് തുടക്കത്തിൽ ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് പ്രയോഗിക്കുമ്പോൾ തുടക്കത്തിൽ V0വോൾട്ടേജ് ചാർജ്ജ് ചെയ്ത കപ്പാസിറ്റർ സമയം t 0 ഉം സമയം t 0 ഉം ആയിരിക്കുമ്പോൾ തന്നെ തുടരും എന്ന ഈ പദപ്രയോഗത്തിന്റെ സഹായത്തോടെ ഈ മൂല്യം കണക്കാക്കാം കപ്പാസിറ്റർ തുടക്കത്തിൽ ചാർജ്ജ് ചെയ്യപ്പെടും എന്ന അനുമാനത്തോടെ ഡിസി വോൾട്ടേജ് ഉറവിടത്തിന്റെ പെട്ടെന്നുള്ള പ്രയോഗത്തോടുള്ള ആർസി സർക്യൂട്ടിന്റെ പൂർണ പ്രതികരണമാണിത് ഇതോടെ ഇന്നത്തെ സെഷൻ ഞങ്ങൾ അവസാനിപ്പിക്കും അടുത്ത പ്രഭാഷണത്തിൽ ഈ യാത്ര തുടരുന്നു അവിടെ ആർസി സർക്യൂട്ടുകളുമായി ബന്ധപ്പെട്ട കുറച്ച് ആശയങ്ങൾ കൂടി ചർച്ച ചെയ്യും ചില ഉദാഹരണങ്ങൾ കാണും തുടർന്ന് ആർഎൽ സർക്യൂട്ടിലേക്കും നീങ്ങും